സ്വാഗതം ഇത് പ്രഭാഷണ നമ്പർ 28 ഇന്ന് ഞങ്ങൾ ഡബിൾ ഇന്റഗ്രലുകളെക്കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ചും ചില ലളിതമായ മൂല്യനിർണ്ണയ കേസുകളിലൂടെ ഞങ്ങൾ കടന്നുപോകും അതിനുമുമ്പ് ഞങ്ങൾ ഡബിൾ ഇന്റഗ്രലുകളും അവയുടെ ഗുണങ്ങളും അവതരിപ്പിക്കും അതിനാൽ സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷനുകളുടെ ഇന്റഗ്രൽ നിർവചിക്കുന്നതിന് മുമ്പ് രണ്ട് വേരിയബിളുകൾക്കായി നിർവചിക്കാo സിംഗിൾ ഇന്റഗ്രലുകൾക്കായുള്ള നിർവചനം നമുക്ക് ഓർമിക്കാം അതിനാൽ ഇന്റഗ്രൽ ⁡ ഈ തുക എന്തായിരുന്നു a മുതൽ b വരെ നിർവചിച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ f എടുത്താൽ ഇത് x ആക്സിസ് ആണ് ഒപ്പം y ആക്സിസും ഉണ്ട് അതിനാൽ ഈ ഡൊമെയ്നെ a മുതൽ b വരെ പല കഷണങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എന്നിങ്ങനെ എന്ന് കിട്ടുന്നു അതിനാൽ ഞങ്ങൾ മുഴുവൻ റേഞ്ചിനെയും a മുതൽ b വരെ n ഇടവേളകളായി വിഭജിച്ചു ഓരോ ഇടവേളയിലും ഞങ്ങൾ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട് അത് ഒരു മധ്യ ബിന്ദു ആകാം അല്ലെങ്കിൽ അത് ഇവിടെ മറ്റേതെങ്കിലും പോയിന്റാകാം അതിനാൽ ഈ പോയിന്റും തുടർന്ന് ഈ ഇടവേളയിൽ നും നും ഇടയിലാണ് ഫംഗ്ഷന്റെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ മൂല്യം എടുക്കുന്നു അത് ഇവിടെയുണ്ട് അതിനാൽ ഇത് ഞങ്ങളുടെ നൊട്ടേഷനിൽ ആണ് ഇത് ആണ് കാരണം ഇത് ആദ്യത്തെ ഇടവേളയാണ് ഇത് ആയിരിക്കും ഞങ്ങൾ ഇപ്പോൾ ഈ ഉൽപ്പന്നത്തെ സംഗ്രഹിക്കുന്നു അതിനാൽ എന്താണ് ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഈ ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണം നൽകും അതിനാൽ ഈ വീതി ഇത് ഉം ഉയരം കൊണ്ട് ഗുണിച്ചാൽ ഉം ആണ് അതിനാൽ ഈ കേസുകളെല്ലാം ഞങ്ങൾ സംഗ്രഹിക്കുന്നു അതിനാൽ ഈ ദീർഘചതുരങ്ങളുടെ വിസ്തീർണ്ണം ഫിനിറ്റായ തുകയിൽ നമുക്ക് ലഭിക്കും പക്ഷേ ഞങ്ങൾ ലിമിറ്റുകൾ എടുക്കുമ്പോൾ n അടുക്കുന്നു അതിനാൽ ഓരോ ദീർഘചതുരത്തിലും ഒരു പിശക് ഭാഗമുണ്ട് ഉദാഹരണത്തിന് ഞങ്ങൾ ഇവിടെ കൂടുതൽ വിസ്തീർണ്ണം എടുക്കുന്നു തുടർന്ന് വളവിന് കീഴിലുള്ള വിസ്തീർണ്ണം കൂടുതലോ കുറവോ ആകാം ഇവിടെയും ഇതേ അവസ്ഥയുണ്ട് അതിനാൽ അവ തെറ്റായിരിക്കാം കാരണം ഞങ്ങൾ ഈ ദീർഘചതുരങ്ങളുടെ വിസ്തീർണ്ണം എടുക്കുന്നു അതിനാൽ പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ ഇടവേളകളുടെ ദൈർഘ്യം 0 ലേക്ക് പോകുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ലിമിറ്റ് വളവിന് കീഴിലുള്ള പ്രദേശത്തെ സമീപിക്കും അതിനാൽ ഈ ഇന്റഗ്രൽ ഈ വക്രത്തിന് കീഴിലുള്ള ഏരിയയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഈ തുകയുടെ ലിമിറ്റായി നിർവചിക്കപ്പെടുന്നു അതിനാൽ രണ്ട് വേരിയബിളുകളുടെ അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രലുകളുടെ സമാനമായ ആശയം നമുക്കുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ പ്ളേൻ അടച്ച മേഖല D യിൽ നിർവചിക്കട്ടെ ഇത് പൊതുവെ ഏത് ആകൃതിയിലും ആകാം അതിനാൽ ഇവിടെ നമുക്ക് x അക്ഷവും y അക്ഷവും ഉണ്ട് തുടർന്ന് ഞങ്ങൾ ഈ പ്രദേശത്തെ വീണ്ടും ഉപമേഖലകളായി വിഭജിക്കുന്നു അതിനാൽ ഏരിയയുടെ ചെറിയ പ്രദേശങ്ങളായി വിഭജിക്കുന്നു അതിനാൽ ഓരോ ഉപമേഖലയിലും ഏരിയ ഉണ്ടാകും മുതൽ വ്യത്യാസപ്പെടുന്നു അതിനാൽ അത്തരം ദീർഘചതുരങ്ങൾ അല്ലെങ്കിൽ ചതുരങ്ങൾ യഥാർത്ഥത്തിൽ n ആണ് അവയിൽ ഓരോന്നിനും ഏരിയയുണ്ട് അതിനാൽ നമ്മൾ ഒരു പോയിന്റ് ഏരിയയിലെ ചില പോയിന്റുകളാണെങ്കിൽ ഒരു പൊതു പോയിന്റുമാണെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു പൊതു ചതുരം അല്ലെങ്കിൽ ദീർഘചതുരം എന്ന് വിളിക്കുന്നു അവിടെ സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് ഞങ്ങൾ എടുക്കുന്നു ഇത് എന്നിട്ട് ഈ തുക ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ മൂല്യം വീണ്ടും തുകയാക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ചില പോയിന്റുകൾ എടുത്തിട്ടുണ്ട് തുടർന്ന് മൂന്നാമത്തെ ഡൈമെൻഷൻ ഒരു ഉപരിതലമായി നിർവചിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാകും ഇത് സാധാരണയായി z അക്ഷമായി എടുക്കും അതിനാൽ ഒരു ഉപരിതലമുണ്ടാകും അതിനാൽ ഉപരിതലത്തിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ന് സമാനമായ ഉണ്ടായിരിക്കും കൂടാതെ ഞങ്ങൾ ഈ ഏരിയ കൊണ്ട് ഗുണിച്ചു ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഈ ലിമിറ്റിന്റെ മൂല്യത്തെ ഇന്റഗ്രൽ Dയായി സൂചിപ്പിക്കുന്നു അതിനാൽ ഡബിൾ ഇന്റഗ്രൽ D ഈ അല്ലെങ്കിൽ ചിലപ്പോൾ യുടെ നൊട്ടേഷൻ ഷീറ്റും ഉപയോഗിക്കുന്നു ഇത് ഇൻഫിനിറ്റ് ചിഹ്ന ഉപമേഖലയുടെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നമുക്ക് അല്ലെങ്കിൽ എന്നും സൂചിപ്പിക്കാൻ കഴിയും അതിനാൽ ഇതാണ് നിർവചനം ഇത് ഈ തുകയുടെ ലിമിറ്റാണ് ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ചേർക്കുന്നു ഒപ്പം ചെറിയ വിസ്തീർണ്ണം കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു x y പ്ളേൻ ഈ പോയിന്റിന് അനുസരിച്ച് ഓരോ ഉപമേഖലയിലും ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ഫംഗ്ഷൻ മൂല്യം ഉണ്ട് ഇവയെല്ലാം ചേർത്ത് ഈ ദീർഘചതുരങ്ങളുടെ എണ്ണത്തിലേക്ക് n അടുക്കുമ്പോൾ ലിമിറ്റ് എടുക്കുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ അത്തരം സമഗ്ര നൊട്ടേഷൻ ഉപയോഗിച്ച് ഞങ്ങൾ ഇത് നിർവ്വചിക്കുന്നു അതിനാൽ ഈ ലിമിറ്റ് നിലവിലുണ്ടെന്ന് എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ സമഗ്രത നിലനിൽക്കുന്നു ഈ ഫംഗ്ഷൻ തുടർച്ചയായി അല്ലെങ്കിൽ D യിൽ തുടർച്ചയായി തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അടച്ച ബൌണ്ടറി ഡൊമെയ്ൻ ഉണ്ട് കൂടാതെ ഫംഗ്ഷൻ ഭാഗം തിരിച് തുടർച്ചയോ അല്ലെങ്കിൽ തുടർച്ചയോ ആണെങ്കിൽ അത്തരം ഇന്റഗ്രലുകളുടെ നിലനിൽപ്പിന് ഇത് മതിയാകും ഈ ഡബിൾ ഇന്റഗ്രലുകൾക്കുള്ള ജ്യാമിതീയ വ്യാഖ്യാനത്തിലേക്ക് വരുന്നു അതിനാൽ ഞങ്ങൾ കണ്ട ലിമിറ്റ് നിർവചനത്തിൽ നിന്നും ഇത് വ്യക്തമാണ് അതിനാൽ ഞങ്ങൾ xy പ്ളേനിലെ ചെറിയ പ്രദേശം എടുത്തു അല്ലെങ്കിൽ xy പ്ളേൻ മുഴുവൻ ഡൊമെയ്ൻ പല ഉപ മേഖലകളായി തിരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഒരു ഉപമേഖലയും ഇതിനോട് യോജിക്കുന്ന ഉപരിതലവുമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് നൽകിയ പ്രൊജക്ഷൻ ആണ് അതിനാൽ ഡബിൾ ഇന്റഗ്രൽ അതിനാൽ ഈ ഉപമേഖലയിൽ ഒരു പോയിന്റിൽ ഞങ്ങൾ എടുക്കും അത് സാധാരണയായി നമുക്ക് എന്ന്സൂചിപ്പിക്കാൻ കഴിയും ഈ പോയിന്റിനു കറസ്പോണ്ടിങ്ങായി ഇവിടെ ഉപരിതലത്തിൽ ഒരു പോയിന്റ് ഉണ്ടാകും അതിനാൽ നമുക്ക് പോയിന്റ പോലെ എന്നിട്ട് അവിടെ ഞങ്ങൾ ഈ ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണത്തിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ xy പ്ളേനിലെ ഉപമേഖല എടുത്ത് ഈ ഉയരം കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഈ ഏരിയ ഉയരം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും അതിനാൽ ഇവിടെ നിർവചിച്ചിരിക്കുന്ന ഈ ഉപമേഖലയുടെ വോളിയം നമുക്ക് വീണ്ടും ലഭിക്കും എന്നിട്ട് ഞങ്ങൾ അത്തരം ഉപ പ്രദേശങ്ങൾ ചേർത്ത് ലിമിറ്റ് എടുക്കുന്നു അതിനാൽ ഈ കേസിൽ ഉപരിതലത്തിന് കീഴിലുള്ള വോളിയം ഇതിന് കീഴിലുള്ള പ്രദേശം നമുക്ക് ലഭിക്കും അതിനാൽ ഈ ലിമിറ്റ് കാരണം ഈ ഉദാഹരണത്തിന് ഇത് ഈ ത്രികോണത്തിന്റെ വിസ്തീർണ്ണമോ ഇവിടെ നിർവചിച്ചിരിക്കുന്ന ഉപമേഖലയോ ആണ് ഇത് ഈ f കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഇത് ഈ ചെറിയ ഉപമേഖലയുടെയും ഞങ്ങൾ ഇവിടെ ചേർക്കുന്ന അത്തരം ഉപമേഖലകളുടെയും വോളിയം നൽകുന്നു അത് ഈ ഇന്റഗ്രൽ സൂചിപ്പിക്കും അങ്ങനെ അത് വോള്യത്തെ പ്രതിനിധീകരിക്കും വോളിയം പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ഈ 1 ന് തുല്യമാണ് അതിനാൽ നമുക്ക് എന്ത് ലഭിക്കും അതിനാൽ നമ്മൾ ഇവിടെ എന്ന് സജ്ജമാക്കുകയാണെങ്കിൽ 1 ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾ ഫംഗ്ഷൻ 1 എടുക്കും കാരണം ഞങ്ങൾ അടിസ്ഥാനപരമായി ചേർക്കുന്നു അതിനാൽ ഞങ്ങൾ ഈ മേഖലകളെല്ലാം ചേർക്കുന്നു കൂടാതെ ഡൊമെയ്നിന്റെ മൊത്തം വിസ്തീർണ്ണം D നമുക്ക് ലഭിക്കും ഉദാഹരണമായി ഈ f 1 ആയി എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ഡബിൾ ഇന്റഗ്രൽ xy പ്ളേൻ ഉപയോഗിച്ച് ഡൊമെയ്നിന്റെ വിസ്തീർണ്ണം നേടുക അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഇത് xy പ്ളേൻ ഉപരിതലത്തിന് കീഴിലുള്ള വോള്യത്തെ പ്രതിനിധീകരിക്കുന്നു മൂല്യനിർണ്ണയത്തിലേക്ക് പോകുന്നതിനുമുമ്പ് ഇരട്ട ഇന്റഗ്രലുകളുടെ ചില സവിശേഷതകൾ ചർച്ച ചെയ്യാം അതിനാൽ സിംഗിൾ ഇന്റഗ്രലിന് സമാനമായി ഡബിൾ ഇന്റഗ്രലിനും സമാനമായ ഗുണങ്ങൾ കൂടുതലോ കുറവോ ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ k എന്ന ഗുണത്തെ കൊണ്ട് ഗുണിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സ്ഥിരമായ k ആണ് അതിനാൽ ഇന്റഗ്രലിൽ നിന്ന് പുറത്തുവരാൻ കഴിയും തുടർന്ന് നമുക്ക് ഈ ഇന്റഗ്രൽ കിട്ടുന്നു അതുപോലെ നമുക്ക് ഇവിടെ സങ്കലനം ഉണ്ട് അല്ലെങ്കിൽ f g എന്നീ രണ്ട് ഫംഗ്ഷനുകളുടെ വ്യത്യാസമുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഇന്റഗ്രൽ f ലായിരിക്കും കൂടാതെ D യിലുള്ള ഇന്റഗ്രൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും

അതിനാൽ ഈ ഇരട്ട ഇന്റഗ്രലിന്റെ മറ്റൊരു പ്രോപ്പർട്ടി അതിനാൽ ഇവിടെ ഞങ്ങൾ ഡൊമെയ്നിൽ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയി എടുക്കുകയും ഞങ്ങൾ ഇത് D യിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ ഈ മൂല്യം 0 നേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും

അതുപോലെ നമുക്ക് എന്ന രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ അതിന്റെ f വലിയ മൂല്യങ്ങൾ നീക്കുന്നുവെങ്കിൽ g D ഡൊമെയ്നിൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ g f ന്റെ ഇന്റഗ്രൽ ആയിരിക്കും ഇവിടെ ഈ g യുടെ അവിഭാജ്യത്തേക്കാൾ വലുതാണ്

അതിനാൽ അവസാനമായി ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതാണ് സങ്കലന പ്രോപ്പർട്ടി അതിനാൽ ഇന്റഗ്രൽ Dയും ഡൊമെയ്നും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഡൊമെയ്ൻ D ഉണ്ടായിരുന്നു ഇത് ഡൊമെയ്ൻ എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു അതിനാൽ ഈ സന്ദർഭത്തിൽ ഇന്റഗ്രൽ Dക്ക് നമുക്ക് ഇന്റഗ്രൽ തുടർന്ന് ഇന്റഗ്രൽ എന്ന് എഴുതാം അതേ ഇന്റഗ്രന്റ് അതേ ഇന്റഗ്രൽ ഈ പ്രദേശം മാത്രമേ മാറിയിട്ടുള്ളൂ അതിനാൽ ഇത് ഈ സിംഗിൾ ഇന്റഗ്രലിന്റെ പൊതുവായ പ്രോപ്പർട്ടിയാണ് അതിനാൽ ഡബിൾ ഇന്റഗ്രലിനും ഏറെക്കുറെ സമാനമായ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ മൂല്യനിർണ്ണയത്തിലേക്ക് വരുന്നു അതിനാൽ മൂല്യനിർണ്ണയത്തിനായി ആദ്യം ഞങ്ങൾ ഒരു ലളിതമായ രംഗം പരിഗണിക്കും ഉദാഹരണത്തിന് ഈ തുടർച്ചയായതോ നിർവചിക്കപ്പെട്ടതോ ആണെങ്കിൽ ഈ സാഹചര്യത്തിലും ഈ ഇന്റഗ്രൽ ഈ ചതുരാകൃതിയിലുള്ള പ്രദേശത്ത് നിലനിൽക്കും അതിനാൽ ഞങ്ങൾ സ്വയം ചതുരാകൃതിയിലുള്ള പ്രദേശത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ x a മുതൽ b വരെയും y c മുതൽ d വരെയും വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ ചതുരാകൃതിയിലുള്ള പ്രദേശത്തിന് ഈ ചിത്രത്തിലും നൽകിയിരിക്കുന്നത് x ന് a മുതൽ b വരെയും y അക്ഷത്തിൽ c മുതൽ d വരെയും വ്യത്യാസപ്പെടുന്നു അതിനാൽ നമുക്ക് ഈ സ്ഥിര സംഖ്യകൾ a മുതൽ b വരെയും c മുതൽ d വരെയും ഉണ്ട്

അതിനാൽ ഇത് വളരെ ലളിതമായ ഒരു കേസാണ് അത്തരമൊരു നല്ല ഡൊമെയ്നിന് ഈ ഇന്റഗ്രൽ നിർവചിക്കാൻ ഞങ്ങൾക്ക് കഴിയും കാരണം x ന് ലിമിറ്റുകൾ വ്യക്തമാണ് Y യുടെ ദിശയിൽ ലിമിറ്റുകൾ സ്ഥിരമായിരിക്കും അവ പരസ്പരം ആശ്രയിക്കുന്നില്ല അതിനാൽ അത്തരമൊരു ചതുരാകൃതിയിലുള്ള പ്രദേശത്തിന് നിർവചിക്കപ്പെടും അതിനാൽ ആദ്യം നമ്മൾ x മായി ഇന്റഗ്രൽ കണക്കുകൂട്ടും ഉദാഹരണത്തിന് y യുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ പ്രശ്നമല്ല അതിനാൽ ആദ്യം ഇത് ചർച്ച ചെയ്യാം അതിനാൽ ഇന്റഗ്രൽ ഞങ്ങൾ ഈ y യെ സ്ഥിരമായി കണക്കാക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ ഇവിടെ നിന്ന് a മുതൽ b വരെ എടുക്കുന്നു കാരണം x a മുതൽ b വരെ വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ ഇത് y ന്റെ ഒരു ഫംഗ്ഷനായി മാറും കാരണം നമ്മൾ ഈ x ൽ നിന്ന് a മുതൽ b വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ y അതേപടി നിലനിൽക്കും അതിനാൽ ഇത് y ന്റെ ഒരു പ്രവർത്തനമായിരിക്കും തുടർന്ന് നമുക്ക് ഇത് ആവർത്തിക്കാവുന്ന ഒരു ഇന്റെഗ്രലാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് y യുമായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ y c മുതൽ d വരെ വ്യത്യാസപ്പെടും കാരണം ഈ പ്രദേശം a മുതൽ b വരെയും c മുതൽ d വരെയും y ന്റെ ദിശയിൽ നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം y യുമായി ഇന്റഗ്രൽ കണക്കുകൂട്ടാം അതിനാൽ ഈ എന്നിട്ട് y എന്നത് c മുതൽ d വരെ വ്യത്യാസപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് x ന്റെ phi എന്ന് വിളിക്കാം അതിനാൽ ഇന്റഗ്രേഷനുശേഷം ഇത് x ന്റെ ഒരു ഫംഗ്ഷനായിരിക്കും എന്നിട്ട് ഇത് ഒരു വേരിയബിളിന്റെ ഫംഗ്ഷനാണ് നമുക്ക് ഇപ്പോൾ x ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ x a മുതൽ b വരെ വ്യത്യാസപ്പെടും

അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം x നോടും പിന്നീട് y നോടും അല്ലെങ്കിൽ ആദ്യം y നോടും പിന്നീട് അത്തരം ഡൊമെയ്നിനായി x നോടും കണക്കുകൂട്ടുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല ഇവിടെ ലിമിറ്റ് നേടുന്നതും വളരെ എളുപ്പമാണ് എന്നാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല കാരണം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും അത്തരമൊരു നല്ല ഡൊമെയ്ൻ ഇല്ല അതിനാൽ ചതുരാകൃതിയില്ലാത്ത പ്രദേശങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ചില ലളിതമായ കേസുകൾ പരിഗണിക്കും പിന്നീട് കൂടുതൽ പൊതുവായ കേസുകളിലേക്ക് വരും അതിനാൽ ഇവിടെ ഉദാഹരണത്തിന് ഒരു ഡൊമെയ്ൻ ഇത്തരത്തിലുള്ളതാണ് അതിനാൽ ഇതാണ് ഇവിടെ ഡൊമെയ്ൻ അതിനാൽ ഞങ്ങളുടെ ഫംഗ്ഷൻ ഈ ഡൊമെയ്ൻ നിർവചിക്കപ്പെടുന്നു അതിനനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ ഫംഗ്ഷൻ മൂല്യങ്ങളുണ്ട് അതിനാൽ ഈ ഡൊമെയ്നിനെ ഈ കൊണ്ട് ബൌണ്ടഡായിരിക്കുന്നു നമുക്ക് ഇപ്പോൾ v1 ഫംഗ്ഷൻ ഉണ്ട് അത് x നെ ആശ്രയിച്ചിരിക്കുന്നു X വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ വക്രമുണ്ട് X നോടനുബന്ധിച്ച് നമുക്ക് മറ്റ് ചില ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ ഇവിടെ ബൌണ്ടറിയും മാറുന്നു Y ന്റെ ദിശയിൽ നമുക്ക് ഈ സ്ഥിരാങ്കം ഉണ്ട് അതിനാൽ ഈ x a ക്കും b ക്കും തുല്യമാണ് ഇതാണ് കട്ട് എന്നാൽ ഇവിടെ y യുടെ ദിശയിൽ നമുക്ക് അവയുടെ എന്നീ ഫംഗ്ഷനുകൾ ഉണ്ട് അതിനാൽ അത്തരം ഡൊമെയ്നുകളെ സംബന്ധിച്ചിടത്തോളം ഈ D ഡൊമെയ്നിന് മുകളിലുള്ള അവിഭാജ്യ കണക്കുകൂട്ടൽ പ്രയാസകരമല്ല ആദ്യം ഈ f സ്വാഭാവികമായും ഈ ഡൊമെയ്നിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതും ബൌണ്ടഡായതും അല്ലെങ്കിൽ തുടർച്ചയല്ലാത്തതോ അല്ലെങ്കിൽ ഭാഗം തിരിച് തുടർച്ചയായതോ ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഈ ഉം ഉം തുടർച്ചയായ ഫംഗ്ഷനുകളാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ ഡൊമെയ്ൻ ഉണ്ട് അത് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഡബിൾ ഇന്റഗ്രൽ ഇപ്പോൾ ഈ സീക്വൻസിംഗ് പിന്തുടരണം അതിനാൽ ആദ്യം നമ്മൾ y യുമായി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പോൾ y യുമായി ബന്ധപ്പെട്ട് ഈ ലിമിറ്റ് നേടുന്നതിനായി നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് അതിനാൽ y യുമായി ബന്ധപ്പെട്ട് y ന് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുക തുടർന്ന് ഇവിടെ ഈ വരി ഈ ൽ പ്രവേശിച്ച് ൽ പുറത്തുപോകുന്നു അതിനാൽ ഇവ ഇപ്പോൾ y യുടെ ദിശയിലുള്ള ലിമിറ്റുകളാണ് x a ന് തുല്യവും x വരെ എല്ലായിടത്തും b ന് തുല്യവുമാണ് അതിനാൽ ഇത് ആദ്യത്തെ ഇന്റഗ്രൽ ആണ് അതിനാൽ y ന്റെ ദിശയിൽ ലിമിറ്റുകൾ മുതൽ വരെ അതിനാൽ ആദ്യം ഈ ഇന്റഗ്രൽ ഉള്ളതിനാൽ ഇത് വീണ്ടും സിംഗിൾ ഇന്റെഗ്രലാണ് കാരണം ഈ x ഇവിടെ സ്പർശിക്കാത്തതിനാൽ ഞങ്ങൾ y യുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ ലിമിറ്റുകൾ മുതൽ വരെ എടുക്കുന്നു ഈ ഇന്റഗ്രൽ ഉപയോഗിച്ച് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ x മായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ x ന് ഇപ്പോൾ ലിമിറ്റ് a മുതൽ b വരെയാണ് അതിനാൽ x ലിമിറ്റുകൾ ഇവിടെ a മുതൽ b വരെ സ്ഥിരമായിരിക്കും എന്നാൽ ഇന്നർ ഇന്റഗ്രൽ y ന് ലിമിറ്റുകൾ x നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അത്തരം ഡൊമെയ്നിനായി സ്വാഭാവികമായും ഞങ്ങൾ സീക്വൻസിംഗിനെ പിന്തുടരും കാരണം നമ്മൾ ആദ്യം x മായി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു വഴിയിലൂടെ പോയാൽ ഒരു പ്രശ്നമുണ്ടാകും കാരണം ഈ ഇന്റെഗ്രലിന് അത്രയും മികച്ച പ്രാതിനിധ്യം നമുക്കില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ y നമുക്ക് ഇവിടെ മുതൽ വരെ നല്ല ലിമിറ്റുകളുണ്ട് X ന് നമുക്ക് a മുതൽ b വരെ സ്ഥിരമായ ലിമിറ്റുകളുണ്ട് അതിനാൽ അതാണ് ക്രമം അത്തരം ഡൊമെയ്നിനായി ഞങ്ങൾ പിന്തുടരണം നമുക്ക് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഡൊമെയ്ൻ ഉദാഹരണത്തിന് ഇവിടെ ഈ y യെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വക്രമുണ്ട് അതിനാൽ ഈ ലേക്ക് നമുക്ക് ഉണ്ട് തുടർന്ന് y ൽ ഞങ്ങൾ c മുതൽ d വരെ പോകുന്നു ഈ സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഈ ഉണ്ട് ആക്സസ് എന്തുകൊണ്ട് നിർവചിക്കപ്പെടുന്നു D യിൽ ബൌണ്ടഡായിരിക്കുന്നു എന്നിവ തുടർച്ചയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ അത്തരം ഡൊമെയ്നിന് മുകളിലുള്ള y ആയിരിക്കും ഇപ്പോൾ നമ്മൾ x മായി ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുo അതിനാൽ ഈ സാഹചര്യത്തിൽ x നെ സംബന്ധിച്ച് ചർച്ച ചെയ്യും അതിനാൽ ലിമിറ്റ് മുതൽ ലേക്ക് പോകുന്നു അത്തരം വരികൾ ഇപ്പോൾ ഈ cയിൽ നിന്ന് വ്യത്യാസപ്പെടും അവ c മുതൽ d വരെ പോകും അതിനാൽ x y എന്നിവയ്ക്കുള്ള ലിമിറ്റുകൾ എളുപ്പത്തിൽ കണക്കാക്കാം ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇന്റഗ്രൽ ഇപ്പോൾ x മായി കണക്കുകൂട്ടും അതിനാൽ x ന് നമുക്ക് മുതൽ വരെയുണ്ട് നമുക്ക് ഈ ഇന്റഗ്രൽ ലഭിച്ചുകഴിഞ്ഞാൽ അത് y യുടെ ഫങ്ക്ഷനായിരിക്കും അതിനാൽ y യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുo y ന്റെ ലിമിറ്റ് c മുതൽ d വരെ ആയിരിക്കും അതിനാൽ വീണ്ടും ഈ സാഹചര്യത്തിൽ ഏതാണ് ഇപ്പോൾ സൌകര്യപ്രദമെന്ന് കാണണം അതിനാൽ നമുക്ക് ആദ്യം x നെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രൽ നേടേണ്ടതുണ്ട് കാരണം ഈ ലിമിറ്റുകൾ ലഭിക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ് തൽക്കാലം ഞങ്ങൾ c മുതൽ d വരെയുള്ള ലിമിറ്റ് നിശ്ചയിക്കും അതിനാൽ ഈ സാഹചര്യത്തിലും നമുക്ക് ഇന്റഗ്രലുകളെ എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു കാരണം ഈ ലിമിറ്റുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ സിംഗിൾ ഇന്റഗ്രലുകളിലേക്ക് മടങ്ങുന്നു അത് എങ്ങനെ വിലയിരുത്തണമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ നമുക്ക് ഇവിടെ ഉദാഹരണത്തിലേക്ക് പോകാം അതിനാൽആദ്യത്തെ ഉദാഹരണം ഇവിടെയുള്ള മൂല്യം എന്താണെന്ന് ഞങ്ങൾ കണക്കാക്കും ഈ പ്രദേശം R എന്ന വരിയും വക്രവും കൊണ്ട് ബൌണ്ടഡായിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഈ വരിയും പരാബോള ഉം ഉണ്ട് അതിനാൽ ഞങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇന്റഗ്രേഷന്റെ മേഖല വരയ്ക്കേണ്ട ആദ്യ ഘട്ടമാണെന്നും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ഭാഗമാണെന്നും ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് ലൈൻ തുടർന്ന് നമുക്ക് ഈ പരാബോളയുണ്ട് അതിനാൽ അവ തമ്മിൽ ഇന്റർസെക്ട ചെയ്യുന്നു കാരണം ഞങ്ങൾ സോൾവ് ചെയ്യുന്നു അതിനാൽ y x ഞങ്ങൾ ഇടുന്നു അതിനാൽ ഇവിടെ നമുക്ക് x ഉം 0 ന് തുല്യമാണ് അതിനാൽ x 0 ന് തുല്യമാണ് കൂടാതെ x പരസ്പരം കൂടിച്ചേരുന്ന ഈ രണ്ട് പോയിന്റുകളിലും 1 ന് തുല്യമാണ് അതിനാൽ x 0 ന് തുല്യമാണ് നമുക്ക് സ്വാഭാവികമായും y ഉം 0 ഉണ്ട് അതിനാൽ ഇത് ഇന്റർസെക്ഷന്റെ പോയിന്റാണ് X എന്നത് 1 ന് തുല്യമാകുമ്പോൾ മറ്റൊന്ന് y ഉം 1 ആണ് ഇത് മറ്റൊരു പോയിന്റാണ് അതിനാൽ ഈ മേഖലയെ ഞങ്ങൾ ഇന്റഗ്രേഷൻ മേഖല എന്ന് വിളിക്കുന്നു അതിനാൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ മേഖലയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ ഇത് ഇപ്പോൾ ഉള്ളതിനാൽ y യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം ഇന്റഗ്രൽ എടുക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് അതിനാൽ y ന് സമാന്തരമായി ഞങ്ങൾ ഇവിടെ ഒരു രേഖ വരയ്ക്കും y എന്നത് y അക്ഷത്തിന് തുല്യമാണ് അതിനാൽ ഇതാണ് വര അതിനാൽ ഇത് ഇവിടെ ൽ പ്രവേശിക്കുന്നുവെന്നും ഇത് ഡൊമെയ്നെ ഈ ൽ ഉപേക്ഷിക്കുന്നുവെന്നും നിങ്ങൾ കാണും ഡൊമെയ്നിലെ എല്ലായിടത്തും ഇത് ശരിയാണ് നിങ്ങൾ ഈ വരി y അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്നു അത് വഴി പ്രവേശിക്കും കൂടാതെ ഇത് ഡൊമെയ്നെ വരിയിൽ ഉപേക്ഷിക്കും അതിനാൽ അത്തരം വരികൾ x ൽ നിന്ന് 0 മുതൽ x വരെ 1 ന് തുല്യമായിരിക്കും അതിനാൽ ആദ്യം നമ്മൾ ഇവിടെ y നായി ലിമിറ്റ് നിശ്ചയിക്കും കാരണം x നായി y യുമായി ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഇവിടെ y ന്റെ ലിമിറ്റ് ആയിരിക്കും കാരണം ഈ സമയത്ത് അത് ഡൊമെയ്നിൽ പ്രവേശിക്കുമ്പോൾ അത് ആണ് അതിനാൽ ഇവിടെ നമുക്ക് ഈ y ന് തുല്യമാണ് നമ്മൾ ഡൊമെയ്ൻ വിടുമ്പോൾ ഇത് y എന്നത് x ന് തുല്യമാണ് അതിനാൽ ഇവിടെ നമുക്ക് ഇന്റഗ്രന്റ്ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തുകഴിഞ്ഞാൽ പിന്നീട് x അടിസ്ഥാനമായി ഇന്റഗ്രേറ്റ് ചെയ്യണം x പരിധികൾ വ്യക്തമാണ് കാരണം ഈ വരികൾ ഞങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് അവ x ൽ നിന്ന് 0 മുതൽ x വരെ 1 ന് തുല്യമാണ് തുടർന്ന് ഞങ്ങൾ മുഴുവൻ ഡൊമെയ്നും കൈമാറ്റം ചെയ്യുന്നു അതിനാൽ ഇവിടെ x മുതൽ 0 വരെ x മുതൽ x വരെ 1 ന് തുല്യമാണ് ഇവ x ന്റെ ലിമിറ്റുകളാണ് അതിനാൽ x 0 മുതൽ x വരെ 1 ന് തുല്യമാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ലിമിറ്റുകൾ മറ്റ് വഴികളിലൂടെയും എടുക്കാം അതിനാൽ x നോടനുബന്ധിച്ച് ആദ്യം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ എന്തുചെയ്യണം ഈ x അക്ഷത്തിന് സമാന്തരമായി ഒരു രേഖ വരയ്ക്കാം ഈ വരി ഇവിടെ y x ൽ പ്രവേശിച്ച് ഈ ഡൊമെയ്നിൽ ഈ പ്രദേശത്തെ ഈ പരാബോളയിൽ താമസിക്കുന്നു അതിനാൽ ഇവിടെ പ്രവേശിക്കുമ്പോൾ x നുള്ള ലിമിറ്റ് ഞങ്ങൾ ഇടുന്നു അതിനാൽ ഇവിടെ x എന്നത് y ന് തുല്യമാണ് അത് എൻട്രി പോയിന്റാണ് അതാണ് ലിമിറ്റ് അത് ഇവിടെ നിന്ന് പോകുന്നു അതിനാൽ ഇവിടെ ഈ y x സ്ക്വയറിന് തുല്യമാണ് നമുക്ക് y എടുക്കാം x എന്നത്ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ ഡൊമെയ്ൻ ൽ ഉപേക്ഷിക്കുന്നു അതിനാൽ ഇവയാണ് ഇപ്പോൾ x ന്റെ ലിമിറ്റുകൾ ഇപ്പോൾ അത്തരം വരികൾ ഈ y ൽ നിന്ന് 0 മുതൽ y വരെ 1 ന് തുല്യമായിരിക്കും അതിനാൽ ഇത് y ന്റെ ലിമിറ്റായിരിക്കും അതിനാൽ ഇവിടെ y ലിമിറ്റുകൾക്കായി നമുക്ക് y 0 മുതൽ 1 വരെ ഉണ്ട് അല്ലെങ്കിൽ ഈ x ലിമിറ്റിന് നമുക്ക് y മുതൽ വരെ ഉണ്ട് അതിനാൽ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നുകിൽ ആദ്യം y നെ സംബന്ധിച്ചും പിന്നീട് x നോടൊപ്പമോ മറ്റേതെങ്കിലും വഴികളിലൂടെയോ എടുക്കാനുള്ള സാധ്യതയുണ്ട്

അതിനാൽ നമുക്ക് ആദ്യത്തേത് എടുത്ത് ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടാം അതിനാൽ ആദ്യത്തേത് ഞങ്ങൾ എടുക്കും ഇത് എടുക്കുന്നതിലൂടെ ഞങ്ങൾ ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുo അതിനാൽ ഇന്നർ ഇന്റഗ്രലിന്റെ ഈ ഇന്റഗ്രേഷനുശേഷം നമുക്ക് ഇത് ലഭിക്കും അതിനാൽ ഇന്നർ ഇന്റഗ്രൽ ഇവിടെ 0 മുതൽ 1 വരെ ഈ ഇന്റഗ്രൽ ഉണ്ട് തുടർന്ന് യോടും പിന്നീട് dx നോടും കൂടി ഉണ്ട് അതിനാൽ ഇത് 0 മുതൽ 1 വരെയാണ് ഇത് ഇപ്പോൾ y അടിസ്ഥാനമാക്കി ഇന്റഗ്രേറ്റ് ചെയ്യും അതിനാൽ നമുക്ക് ഉണ്ടാകും അതാണ് ഇന്റഗ്രൽ തുടർന്ന് മുതൽ വരെയുമുള്ള ലിമിറ്റ് ഞങ്ങൾ ഇടും അതിനാൽ മുതൽ വരെ നമുക്ക് ബാഹ്യ ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ ഞങ്ങൾ x 0 മുതൽ 1 വരെ ആയിരിക്കും അതിനാൽ നമുക്ക് ഉണ്ടാകും കാരണം y എന്നതിന് പകരമായി ഈ x y ന് പകരമാണ് പിന്നീട് 3 തുടർന്ന് ഈ x ന് മൈനസ് അതിനാൽ നമുക്ക് ഇവിടെ ഉണ്ട് അതിനാൽ നിങ്ങൾ എന്നതിന് പകരമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഉണ്ടാകും കൂടാതെ ഞങ്ങൾ ഇവിടെയും ലഭിക്കും അതിനാൽ ഇപ്പോൾ ഇത് ആണ് ഇത് ഇവിടെ ആണ് നമുക്ക് ഇവിടെയും ഉം ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഈ പദം ഉണ്ട് അതിനാൽ ആദ്യത്തെ ഇന്റഗ്രേഷന് ശേഷമാണിത് ഇപ്പോൾ ഇത് സിംഗിൾ ഇന്റഗ്രലാണ് അതിനാൽ x നെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഈ നമ്പർ ലഭിക്കും കാരണം ഇവിടെ നിന്ന് നമുക്ക് റദ്ദാകും ഞങ്ങൾക്ക് ലഭിക്കും ഇവിടെ നമുക്ക് ലഭിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ ലിമിറ്റ് ഇടുമ്പോൾ ഈ 1 ന് തുല്യമാണ് കാരണം ൽ ഇത് 0 ആക്കും അതിനാൽ ഇവിടെ അതിനാൽ തുടർന്ന് ലിമിറ്റ് നിശ്ചയിക്കുമ്പോൾ ഇത് 1 ആകുന്നു ഇവിടെയും നമുക്ക് ഉണ്ട് അതിനാൽ ഇത് ആണ് അതിനാൽ ഇത് നമുക്ക് ലളിതമാക്കാൻ കഴിയുന്ന ഒരു മൂല്യമാണ് അതിനാൽ ഇത് 3 മുതൽ 56 വരെ ആയിരിക്കും അതിനാൽ ഈ ഡബിൾ ഇന്റഗ്രലിന്റെ മൂല്യം ആദ്യം y നെ സംബന്ധിച്ചും പിന്നീട് നെ സംബന്ധിച്ചും നമുക്ക് ഇന്റഗ്രൽ എടുത്ത് മറ്റ് വഴികളിലൂടെയും ചെയ്യാൻ കഴിയും അതിനാൽ ഇവിടെ ഒരു ഉദാഹരണം കൂടി R പ്രദേശത്തെ അപേക്ഷിച്ച് ഈ ഇപ്പോൾ വിലയിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു R എന്നത് x അക്ഷത്തിന് അതിർത്തിയായ പ്രദേശമാണ് അതിനാൽ x 0 ന് തുല്യമാണ് അതായത് y അക്ഷം y 0 ന് തുല്യമാണ് x അക്ഷം ഉണ്ടായിരിക്കുക തുടർന്ന് എന്ന വരിയുണ്ട് അതിനാൽ എല്ലായ്പ്പോഴും ആദ്യപടി അത് ഡൊമെയ്ൻ വരയ്ക്കുന്നതായിരിക്കണം അതിനാൽ നിങ്ങൾ ഡൊമെയ്നുകൾ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് x ആക്സിസ് ഉണ്ട് ഞങ്ങൾക്ക് y ആക്സിസും അതിനുശേഷം നമുക്ക് ഇവിടെ എന്ന വരിയുമുണ്ട് അതിനാൽ ഇത് ഒരു ത്രികോണ ഡൊമെയ്നാണ് x ന്റെ ദിശയിൽ നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ y ന്റെ ദിശയിൽ ഒന്നാമതെത്തുന്നുണ്ടോ എന്നതിന്റെ ലിമിറ്റ് വിലയിരുത്താൻ വളരെ ലളിതമാണ് അതിനാൽ നമ്മൾ ആദ്യം y യുടെ ദിശയാണ് എടുക്കുന്നതെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ y അക്ഷത്തിന് സമാന്തരമായി വര വരയ്ക്കുക ഈ വരി ഇവിടെ y എന്നതിലേക്ക് പ്രവേശിക്കുന്നത് 0 ന് തുല്യമാണെന്നും ഇത് y ൽ ഡൊമെയ്നിൽ നിന്ന് പുറത്തുപോകുന്നത് തുല്യമാണെന്നും ഇവിടെ നിന്ന് നമുക്ക് y ന് തുല്യമായിരിക്കും അതിനാൽ പരിധികൾ y ആയിരിക്കും 0 മുതൽ y വരെ ന് തുല്യമാണ് ലിമിറ്റ് x 0 മുതൽ 1 വരെയും പിന്നീട് ഉം ആയിരിക്കും അതിനാൽ ഇന്റഗ്രൽ കണക്കുകൂട്ടുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത് എന്നാൽ ഈ ഡൊമെയ്നിൽ x മായി ബന്ധപ്പെട്ട് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേടാൻ കഴിയുന്ന സമാനമായ ലിമിറ്റുകളാണ് ഇത് അതിനാൽ x മായി ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് x ന് ലിമിറ്റുണ്ടാകും അതിനാൽ ഈ x അക്ഷത്തിന് സമാന്തരമായി ഒരു രേഖ വരയ്ക്കും ഇവിടെ പ്രവേശിക്കുന്ന x 0 ന് തുല്യമാണ് ഇവിടെ ഈ വരിയിൽ ഉപേക്ഷിക്കുന്നു ഇവിടെ xന്റെ മൂല്യം ആയിരിക്കും അതിനാൽ ഇവിടെ നിന്നുള്ള x ആയിരിക്കും എന്നിട്ട് നമുക്ക് y യുമായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ y 0 മുതൽ 1 വരെ പോകും എന്നിട്ട് ഒന്നുകിൽ നമുക്ക് ആദ്യത്തെ ഇന്റഗ്രൽ അല്ലെങ്കിൽ രണ്ടാമത്തേത് കണക്കുകൂട്ടാം അതിനാൽ ആദ്യത്തേത് എടുക്കാം അതിനാൽ ഇത് 0 മുതൽ വരെ എടുക്കുന്നു ഈ x 0 മുതൽ 1 വരെ പോകുന്നു അതിനാൽ ഈ ഇന്നർ ഇന്റെഗ്രലിനെ y അടിസ്ഥാനമാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഉണ്ട് അത് ഞങ്ങളുടെ ഇന്റഗ്രന്റ് ആണ് അതിനാൽ ഞങ്ങൾ y അടിസ്ഥാനമാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനർത്ഥം ഇന്റഗ്രൽ ഇന്നർ ഇന്റഗ്രലാണ് എന്നത് ഈ y യുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരാങ്കമാണ് ആയി മാറും തുടർന്ന് ഈ ലിമിറ്റ് 0 മുതൽ വരെ ആയിരിക്കും അതിനാൽ നമുക്ക് ഇവിടെ ലഭിക്കും ഇവിടെ ഇരിക്കുന്നു

അതിനാൽ ഇത് ആദ്യത്തെ ഇന്നർ ഇന്റഗ്രലാണ് ഇപ്പോൾ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും കാരണം ഒറ്റ ലളിതമായ ഇന്റഗ്രൽ അതിനാൽ ഞങ്ങൾ ചെയ്യും അതിനാൽ ചതുരാകൃതിയിലുള്ള ത്രികോണാകൃതി പോലുള്ള ലളിതമായ ഡൊമെയ്ൻ അല്ലെങ്കിൽ വരിയും പരാബോളയും ബൌണ്ടഡായി കാണുന്നു അതിനാൽ ഈ സന്ദർഭങ്ങളിൽ ആദ്യം x നോടും പിന്നീട് y നോടും അല്ലെങ്കിൽ y നെ സംബന്ധിച്ചും ആദ്യം x നെ സംബന്ധിച്ചും ലിമിറ്റുകൾ കണ്ടെത്തുന്നത് ലളിതമാണ് ഒരൊറ്റ ഇന്റഗ്രൽ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇന്റഗ്രലുകളെ വിലയിരുത്താൻ കഴിയും അതിനാൽ ഡബിൾ ഇന്റഗ്രലിനുള്ള നിർവചനവും വോളിയത്തെ പ്രതിനിധീകരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ 1 ആണെന്നോ ആണ് നിഗമനം

ഇത് വോളിയത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ ഏരിയയാണെങ്കിൽ ഇതിന് D ഡൊമെയ്നിന്റെ ഏരിയയെ പ്രതിനിധീകരിക്കാൻ കഴിയും സാധാരണയായി കടന്നുപോയതിൽ ഏറ്റവും പ്രയാസമേറിയത് ഒന്നിലധികം ഇന്റഗ്രൽ വിലയിരുത്തുന്നതും ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കണ്ടെത്തുന്നതുമാണ്എന്നാൽ ഇന്ന് നാം പരിഗണിച്ച സന്ദർഭങ്ങളിൽ ലളിതമായ ഒരു ജ്യാമിതി ഉണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും ഈ ഇന്റഗ്രേഷന്റെ പ്രദേശത്തിന്റെ രേഖാചിത്രം പ്രധാനമാണ് കാരണം പ്രദേശം രേഖപ്പെടുത്താതെ ഡൊമെയ്നിന്റെ ലിമിറ്റുകളെക്കുറിച്ചുള്ള ആശയം ഞങ്ങൾക്ക് നേടാനാവില്ല അതിനാൽ ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ വളരെ നന്ദി